തിരികെ സ്വാഗതം ഇത് ലെക്ചർ നമ്പർ 32 ആണ് ഡബിൾ ഇന്റഗ്രലുകളെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ തുടരും പ്രത്യേകിച്ചും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യും അത് ഡബിൾ ഇന്റഗ്രലുകളിലെ ചേഞ്ച് ഓഫ് വേരിയബിൾസ് എന്നതാണ് കഴിഞ്ഞ ലെക്ച്ചറിൽ പോളാർ ഫോമിലെ ഡബിൾ ഇന്റഗ്രലുകൾ നമ്മൾ കണ്ടു മുഴുവൻ ഡൊമെയ്നെയും ചെറിയ ഭാഗങ്ങളാക്കി സ്പ്ലിറ്റ് ചെയ്യുക എന്നതായിരുന്നു ഇവിടുത്തെ ആശയം ഈ ചെറിയ ഭാഗത്തിനായി നമ്മൾ ഇവിടെ സൂചിപ്പിച്ചത് ഈ Δi അത് r ΔrΔθ എന്നായി വരും Δθ ഇവിടെ ആംഗിൾ ആയിരുന്നു ഒറിജിനീൽ നിന്ന് ഈ സർക്കുലർ ആർക്ക് ലേക്കുള്ള ദൂരമാണ് r ആ കേസിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ നമുക്ക് ഇന്റഗ്രൽ ഉണ്ടെങ്കിൽ x y എന്നിവയ്ക്ക് പകരമായി rcosθ rsinθ എന്നിവയും dx dy എന്നിവയ്ക്ക് r dr dθ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പോളാർ കോർഡിനേറ്റിലേക്ക് പരിവർത്തനം ചെയ്യാമെന്നതാണ് ഈ ആശയം ഇവിടെയും ഒടുവിൽ x y എന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റുകളെ r θ എന്ന കോർഡിനേറ്റുകളിലേക്ക് മാറ്റുന്നതിന് ഉപയോഗിച്ച സബ്സ്റ്റിട്യൂഷൻസ് എന്നും എന്നും ആയിരുന്നു ഇത് ആകർഷണീയമായ സബ്സ്റ്റിട്യൂഷനായിരുന്നു അടിസ്ഥാനപരമായ നിർവചനത്തിന്റെ സഹായത്തോടെ നേരിട്ട് ഈ r എങ്ങനെ ചിത്രത്തിലേക്ക് വരുന്നുവെന്ന് നമ്മൾ കണ്ടു ഇവിടെ x y എന്നിവക്ക് എന്നീ സബ്സ്റ്റിട്യൂഷൻസ് നൽകുക എന്നുള്ളത് മാത്രമല്ല അവിടെ പ്രത്യക്ഷപ്പെട്ട r എന്ന വെക്റ്റർറിന് അനുബന്ധമായി എന്നും ഉണ്ട് തുടർന്ന് നമുക്ക് r എന്നിവയുടെ ലിമിറ്റ്കളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതുണ്ട് അതിനാൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ പൊതുവായ ഒരു കേസിലേക്ക് പോകും കാർട്ടീഷ്യനിൽ നിന്ന് പോളാർ കോർഡിനേറ്റിലേക്ക് പോകുമ്പോൾ ഇത് ഒരു പ്രത്യേക സാഹചര്യമായിരിക്കും എന്നാൽ പൊതുവേ നമുക്ക് മറ്റേതെങ്കിലും തരത്തിൽ വേരിയബിളുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഘടകത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് ഇന്നത്തെ ലെക്ച്ചറിൽ നമ്മൾ ഇപ്പോൾ കാണും നമുക്ക് ഒരു സിംഗിൾ ഇന്റഗ്രൽ ഉണ്ടെങ്കിൽ എന്ന വേരിയബിളിന് പകരമായി എന്ന റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്ന പുതിയ വേരിയബിളിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക എന്നത് നമ്മൾ ഓർക്കുന്നു ഇവിടെ നിന്ന് നമ്മുടെ dx എന്തായിരിക്കുമെന്ന് ഉടനടി ലഭിക്കുന്നു dx എന്നത് g dt എന്ന രൂപത്തിൽ ആയിരിക്കും തുടർന്ന് ഞങ്ങൾ ഈ x നെ g എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും dx എന്നത് g dt ആകുകയും തുടർന്ന് അനുബന്ധ ലിമിറ്റ്കൾ അവിടെ ദൃശ്യമാകുകയും ചെയ്യുന്നു അതിനാൽ ഈ t യുടെ അനുബന്ധ ലിമിറ്റ്കൾ നമുക്കുണ്ടെന്നും ഈ x ന് പകരമായി g എന്ന പുതിയ ഫംഗ്ഷന് ഉപയോഗിക്കുമെന്നും dx നായി നമുക്ക് ഇവിടെ gdt ലഭിച്ചുവെന്നും ഉള്ളതാണ് ഇവിടുത്തെ ആശയം സിംഗിൾ ഇന്റഗ്രലിന്റെ കാര്യത്തിൽ മറ്റെന്തെങ്കിലും ഓർമിക്കാൻ ഇവിടെയുള്ളത് g ആണ് അത് g യുടെ ഡെറിവേറ്റീവ് തുടർന്ന് dt അനുബന്ധ ലിമിറ്റ്കൾ സബ്സ്റ്റിറ്റ്യൂട്ട്ഷൻഇൽ നിന്നും മാത്രമേ കണക്കാക്കാൻ കഴിയൂ a എന്നത് g ആകാൻ പോകുന്നു ഈ b എന്നത് g അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ ഈ രീതിയിൽ നമ്മൾ പുതിയ ലിമിറ്റ്കളും കണക്കുകൂട്ടി വേരിയബിളിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ഈ dx ന് പകരം dt എന്ന് വന്നിട്ടുമുണ്ട് പക്ഷേ മറ്റൊരു ഘടകം g എന്ന ഡെറിവേറ്റീവിൻറെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുകയും ചെയ്തു രണ്ട് വേരിയബിളുകളിൽ ഒരു ഇന്റഗ്രൽ അഥവാ ഡബിൾ ഇന്റഗ്രൽ ഉള്ളപ്പോൾ സമാനമായ ഒരു ഡെറിവേറ്റീവ് നമുക്ക് ലഭിക്കും

അതിനാൽ നമ്മൾക്ക് ഇവിടെ എന്ന ഡബിൾ ഇന്റഗ്രൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വേരിയബിളുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണംഎന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് എന്ന് പറയാം അതിനാൽ നമ്മുടെ പുതിയ വേരിയബിളുകൾ u v എന്നിവയാണ് ഇവിടെ പഴയത് x y എന്നിവയായിരുന്നു അതിനാൽ y ψ u v എന്ന ഈ ബന്ധം ഉപയോഗിച്ച് x y ൽ നിന്ന് u v ലേക്ക് വേരിയബിളുകൾ മാറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഇത് ഉള്ളതിനാൽ പുതിയ റീജിയനെ അപേക്ഷിച്ച് നമുക്ക് ഈ ഇന്റെഗ്രേലുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന അതേ റീജിയൻ എന്നാണ് പുതിയ വേരിയബിളുകൾ എന്നിവയാണ് അതിനാൽ നമ്മൾ ഇവിടെ വ്യത്യസ്ത നൊട്ടേഷൻ ഉപയോഗിച്ചു എന്നിട്ട് ഇവിടെ നേരിട്ട് x നും y നും പകരമായി ഈ u v യുടെ ഒരു ഫംഗ്ഷനായി നമ്മൾ എന്നിവ പകരം വയ്ക്കും സ്വാഭാവികമായും dx dy ന് നമുക്ക് ഈ ലഭിക്കും എന്നാൽ ഇതിനൊപ്പം നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത മറ്റൊരു ഘടകവും ഉണ്ടായിരിക്കും അതിനാൽ ഒരു വേരിയബിളിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റിന്റെ കാര്യത്തിലോ നിങ്ങൾക്ക് ഇത് rdrdθ ആയി ലഭിക്കുന്നു ഇവിടെ എന്ന ചില ഘടകങ്ങളുണ്ട് മാത്രമല്ല ഞങ്ങൾ ഈ അബ്സല്യൂട്ട് വാല്യുവും എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിന്റെ തെളിവിലൂടെ കടന്നുപോകുന്നില്ല കാരണം അതിൽ ഒരു വലിയ വിഷയം ഉൾപ്പെടുന്നു അപ്പോൾ ഇവിടെ എന്താണ് ഈ അത് ജേക്കബിയൻ എന്ന് വിളിക്കുന്ന ഒരു തരം ഡെറിവേറ്റീവ് ആണ് ജേക്കബിയൻ ഇവിടെ x y u v എന്നിവയുമായി ബന്ധപ്പെട്ട് ഈ ഡിറ്റർമിനന്റിന്റെ രൂപത്തിൽ കണക്കാക്കുന്നു അതിനാൽ ആദ്യത്തെ പദം x ന്റെ u അടിസ്ഥാനമാക്കിയുള്ള ഭാഗിക ഡെറിവേറ്റീവ് ഇവിടെ v അടിസ്ഥാനമാക്കി x ന്റെ ഭാഗിക ഡെറിവേറ്റീവ് താഴെ y യുടെ u അടിസ്ഥാനമാക്കിയുള്ള ഭാഗിക ഡെറിവേറ്റീവ് ഇവിടെ v അടിസ്ഥാനമാക്കി y യുടെ ഭാഗിക ഡെറിവേറ്റീവ് അതാണ് ഇവിടെ ഈ പദം നമ്മൾ കണക്കാക്കുന്നത് അതിൻറെ അബ്സോലൂട്ട് വാല്യു നോടൊപ്പം ഇന്റെഗ്രേലിനകത്തേക്ക് പോകും അതാണ് ഇവിടത്തെ പ്രധാന കാര്യം ഈ ന്റെ ലിമിറ്റുകൾ ഇത് നേരത്തെ ഉണ്ടായിരുന്ന അതേ റീജിയൻ അല്ലാതെ മറ്റൊന്നുമല്ല പക്ഷേ ഇപ്പോൾ നമ്മൾ u v എന്നിവ ഉപയോഗിച്ച് കണക്കുകൂട്ടേണ്ടതുണ്ട് അതിനാൽ പുതിയ വേരിയബിളുകൾ u v അനുസരിച്ച് ലിമിറ്റുകൾ ഇപ്പോൾ പിന്തുടരും അതിനാൽ ഇപ്പോൾ നമുക്ക് ഇത് കണക്കുകൂട്ടാം അല്ലെങ്കിൽ പഴയ വേരിയബിളുകൾ x y യെ അനുയോജ്യമായവയ്ക്ക് പകരം വയ്ക്കാം കാരണം വീണ്ടും ഇന്റെഗ്രേന്റിനെയോ റീജിയനെയോ ആശ്രയിച്ച് നമുക്ക് അനുയോജ്യമായ മറ്റേതെങ്കിലും സുബ്സ്റ്റിട്യൂഷൻ ഉണ്ടാവാം ഇത് ഇന്റഗ്രൽ വിലയിരുത്തൽ എളുപ്പമാക്കുന്നു അതിനാൽ പോളാർ രൂപത്തിൽ സബ്സ്റ്റിട്യൂട് ചെയ്യുകയാണെങ്കിൽഎന്ത് സംഭവിക്കുമെന്ന ഒരു പ്രത്യേക കേസ് കാണണമെങ്കിൽ അതായത് x എന്നത് ക്ക് തുല്യവും y എന്നത് ക്ക് തുല്യവുമാണ് ഈ ജേക്കബിയനെ നമ്മൾ ഇവിടെ കണക്കുകൂട്ടുകയാണെങ്കിൽ അങ്ങനെ അതിനാൽ നമുക്ക് ഈ ഡീറ്റെർമിനന്റ്ന്റെ മൂല്യം r ആയി ഉണ്ട് ഇപ്പോൾ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ നൽകിയിട്ടുള്ള ഈ ഇന്റഗ്രൽ പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റാം അതിനുവേണ്ട Substitution മുൻ പ്രഭാഷണത്തിൽ ഞങ്ങൾ ഇതിനകം ചർച്ചചെയ്തിട്ടുണ്ട് എന്നിവയും തുടർന്ന് എന്നത് എന്നായി തീരുകയും ചെയ്യുന്നു അതോടൊപ്പം R എന്ന റീജിയൻ R എന്ന റീജിയനായി എന്നീ പോളാർ കോർഡിനേറ്റുകളുടെ അടിസ്ഥാനത്തിൽ വിവരിക്കും

അതിനാൽ ഇതുപയോഗിച്ച് നമുക്ക് ഇപ്പോൾ ഉദാഹരണങ്ങളിലൂടെ കടന്നുപോകാം അത് ഒരു ഗോളത്തിന്റെ ഒരു ഒക്ടന്റിന്റെ വോളിയം കണ്ടെത്തുന്നതിന് ആദ്യത്തേത് ഉപയോഗിക്കാം അതിനാൽ നമ്മൾ ഇവിടെ ഗോളം ഉപയോഗിക്കുന്ന മറ്റൊരു ലളിതമായ ഉദാഹരണം ഗോളത്തിന്റെ സമവാക്യം നമുക്കറിയാം അത് ന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിക്കും തുടർന്ന് ഇവിടെ ഒരു ഒക്ടന്റിൽ വോളിയം ലഭിക്കും അടിസ്ഥാനപരമായി ഇവിടെ ആദ്യത്തെ ഒക്ടന്റിനെ പരിഗണിക്കുന്നു അതിനാൽ ലിമിറ്റ് നമുക്ക് എളുപ്പത്തിൽ കണക്കുകൂട്ടാൻ കഴിയും ഇവിടെ നമ്മുടെ ഉപരിതലം ഗോളമാണ് നൽകുന്നത് അതിനാൽ ഈ ഗോളത്തിന്റെ കാര്യത്തിൽ നമുക്ക് Integral ഉണ്ട് കാരണം ഇത് ഗോളത്തിൽ നിന്നാണ് വരുന്നത് ഗോളത്തിന്റെ സമവാക്യം ആയിരുന്നു അതിനാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കണക്കുകൂട്ടാൻ കഴിയും അത് എന്നാണ് അതിനാൽ z ഇവിടെ പ്ലസ് ആകും കാരണം ഞങ്ങൾ അവിടെ ഒരു ഒക്ടന്റിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ ഇത് സർഫസ് ആയിരിക്കും അഥവാ ഇത് ഇവിടെ എന്ന ഇന്റെഗ്രേൻഡ് ആയിരിക്കും തുടർന്ന് ഈ S എന്ന റീജിയന് മുകളിൽ dx dy ആയിരിക്കും

അതിനാൽ ഇത് വൃത്താകൃതിയിലുള്ള എന്ന ഡിസ്കിന്റെ ആദ്യ ക്വാഡ്രന്റിലാണ് അതിനാൽ ആദ്യത്തെ ക്വാഡ്രന്റിലെ വൃത്താകൃതിയിലുള്ള ഡിസ്ക് അതാണ് ഇന്റഗ്രലിനായി ഇവിടെയുള്ള ഡൊമെയ്ൻ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ നേരിട്ടുള്ള വിലയിരുത്തൽ തീർച്ചയായും ബുദ്ധിമുട്ടായതിനാൽ നമ്മൾ ഇപ്പോൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കാരണം ഇതിനകം തന്നെ ഇന്റഗ്രന്റ് ബുദ്ധിമുട്ടാണ് അതോടൊപ്പം സർക്കുലർ ഡിസ്ക് കാരണം ലിമിറ്റിൽ ഈ സ്ക്വയർ റൂട്ടുകൾ ദൃശ്യമാവുകയും മൊത്തത്തിൽ കണക്കുകൂട്ടൽ ബുദ്ധിമുട്ടാവുകയും ചെയ്യും എന്നാൽ ഉം ഉം ഉപയോഗിച്ച് പോളാർ കോർഡിനേറ്റുകളിലേക്ക് മാറുകയാണെങ്കിൽ ഈ സാഹചര്യത്തിൽ എന്ന് നമ്മൾ ഇതിനകം കണ്ടു അതിനാൽ dr dθ യുമായി വരുന്ന ഈ അധിക ഘടകം നമുക്ക് അതിനെ എന്ന പദത്തിലേക്ക് മാറ്റാം അത് എന്നായി മാറും എന്ന ലളിതമായ ആശയം നമുക്കുണ്ട് തുടർന്ന് നമുക്ക് ഈ rdrdθ യോടൊപ്പം ഈ ജേക്കബിയൻ പദം ഉണ്ട് അതിനാൽ ഇപ്പോൾ ഇന്റഗ്രൽ r θ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ അധിക ഘടകം r വന്നു അതിനുശേഷം നമുക്ക് dr dθ ടേർമുണ്ട് അങ്ങനെ എന്ന് ലഭിക്കുന്നു മറ്റൊരു ഉദാഹരണം ഇവിടെ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കാൻ കഴിയും ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടുത്തെ റീജിയൻ ഈ രണ്ട് കോർഡിനേറ്റ് അക്ഷങ്ങളാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു x അക്ഷവും y അക്ഷവും നമുക്ക് x y 2 എന്ന ലൈനും ഉണ്ട് അതിനാൽ നമ്മൾ എന്ന ഈ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന റീജിയൻ ആണിത് ഇന്റഗ്രൻഡിലേക്ക് നോക്കിക്കൊണ്ട് അനുയോജ്യമായ സുബ്സ്റ്റിട്യൂഷൻ ആയി എടുക്കാവുന്നവ y x yx എന്നിവ ആണെന്ന് തോന്നുന്നു അതിനാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്എങ്കിൽ y x നും y x നും ഒരു പുതിയ പേര് നൽകുന്നു അപ്പോൾ ഈ ഇന്റഗ്രൽ കണക്കുകൂട്ടാൻ എളുപ്പമാകും അതിനാൽ നമ്മൾ എന്നിവയിൽ നിന്ന് വേരിയബിൾ മാറ്റി തുടർന്ന് ഈ രണ്ടിൽ നിന്ന് നമുക്ക് x y എന്നിവ u v എന്നിവയുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കാം ഉദാഹരണത്തിന് അതിനാൽ ഈ ബന്ധങ്ങളിൽ നിന്ന് u v എന്നിവയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് x y എന്നിവയുണ്ട് കൂടാതെ നമുക്ക് ജേക്കബിയൻ പദം നേടാം കാരണം പുതിയ ഇന്റഗ്രലിലെ പുതിയ വേരിയബിളിലെ ഈ പരിവർത്തനത്തിന് അത് ആവശ്യമാണ് അതിനാൽ ഇവിടെ നമ്മൾ കണക്കുകൂട്ടണം അത് എന്ന് കിട്ടുന്നു അതിനാൽ ഈ കേസിൽ ജേക്കബിയൻ മൂല്യം 12 ആണ് അതിനാൽ ഇപ്പോൾ ഈ വേരിയബിളിന്റെ മാറ്റം പുതിയ വേരിയബിളുകളായ u v എന്നിവയ്ക്ക് അനുയോജ്യമായ ഡൊമെയ്ൻ ഞങ്ങൾ ഇപ്പോൾ കാണേണ്ടതുണ്ട് അതിനാൽ u v പ്ലെയിനിനായുള്ള ഡൊമെയ്ൻ x 0 എന്ന ലൈൻ കൂടാതെ y0 കൂടാതെ y0 എന്ന ലൈൻ നമുക്ക് ഇതിനകം തന്നെ ഈ വരി ഉണ്ട് അതിനാൽ ഇത് ഉള്ളപ്പോൾ നമുക്ക് പുതിയ ഡൊമെയ്ൻ u v എന്നീ വേരിയബിളുകളുടെ അടിസ്ഥാനത്തിൽ കാണണം അതിനാൽ ഈ വരി x 0 ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണ് x 0 എന്നത് v u ന് തുല്യമാണെന്ന് സൂചിപ്പിക്കുന്നു അതിനാൽ ഈ റീജിയൻ ഇപ്പോൾ നമ്മളുടെ ഇന്റഗ്രേഷനുള്ള പുതിയതാണ് അതിനാൽ ഇപ്പോൾ നമുക്ക് ഈ പുതിയ റീജിയന് അടിസ്ഥാനമാക്കി പുതിയ ലിമിറ്റുകൾ u v എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്താൻ കഴിയും ജേക്കബിയൻ 12 ആയിരുന്നുവെന്ന് ഓർക്കുക നമ്മൾ ഈ കണക്കുകൂട്ടാൻ പോകുന്നു നമ്മളുടെ സബ്സ്റ്റിട്യൂഷൻ y x v എന്നിവയായിരുന്നു ഇത് v u എന്നിവയുടെ അടിസ്ഥാനത്തിൽ നൽകിയ പുതിയ ഡൊമെയ്ൻ ആണ് അതിനാൽ ഈ ഇന്റഗ്രൽ ഉള്ളതിനാൽ നമുക്ക് ഇപ്പോൾ എക്സ്പോണൻഷ്യൽ പവർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയും ഇത് മറ്റൊരു പ്രോബ്ലം രണ്ട് പോളാർ കോർഡിനേറ്റുകൾ മാറ്റിക്കൊണ്ട് ഈ നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇത് സ്വാഭാവികമാണ് കാരണം പോളാർ കോർഡിനേറ്റിലേക്ക് മാറുന്നത് സഹായകമാകുമെന്നും ഒരുപക്ഷേ ഇവിടെയും ഇത് സഹായിക്കും കാരണം ഇത് ഇവിടെ ഒരു സർക്കിൾ ആണ് നൽകിയിരിക്കുന്ന ഇന്റഗ്രലിൽ എന്നിവയാണുള്ളത് ഇവയാൽ ഉൾക്കൊള്ളുന്ന റീജിയൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്ന റീജിയൻ ഓഫ് ഇന്റഗ്രേഷൻ അതായത് x മുതൽ സർക്കിൾ വരെ പോളാർ കോർഡിനേറ്റിന്റെ സഹായത്തോടെ നമ്മൾ ഇപ്പോൾ കവർ ചെയ്യണം അതിനാൽ ഇവിടെ സർക്കിളിന്റെ പോളാർ സമവാക്യം

ലളിതമാക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എന്ന് എഴുതാം അതായത് എന്ന സർക്കിൾ നമുക്ക് ലഭിക്കും അതിനാൽ r ന്റെ ലിമിറ്റുകളും ഇപ്പോൾ വ്യക്തമാണ് 0 മുതൽ വരെ പോകുന്നു അതിനാൽ യഥാർത്ഥത്തിൽ നൽകിയ ഈ എന്ന ഇന്റഗ്രൽ ഇവിടെ എന്നായി പരിവർത്തനം ചെയ്യും ഇത് നമുക്ക് ഇപ്പോൾ എളുപ്പത്തിൽ കണക്കുകൂട്ടാൻ കഴിയും

അവസാന ഉദാഹരണം പോളാർ കോർഡിനേറ്റുകളിലേക്ക് മാറ്റിക്കൊണ്ട് ഈ എന്ന ഇന്റഗ്രലിനെ വിലയിരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇവിടെ xy പ്ലെയിനിലാണ് റീജിയൻ R ഉള്ളത് അത് ഇവിടെ എന്നീ സർക്കിളുകളാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ ഈ രണ്ട് ആരം ഉള്ള ഞങ്ങൾക്ക് രണ്ട് സർക്കിളുകളുണ്ട് ഒന്ന് രണ്ടാമത്തേത് അതിനാൽ റേഡിയസ് 2 ഉം 3 ഉം നൽകിയിരിക്കുന്ന ഇന്റഗ്രലിനെ ഈ റീജിയനിൽ ഇവിടെ വിലയിരുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ വീണ്ടും ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ ഇന്റഗ്രന്റ് മൂലവും റീജിയൻ ഈ രണ്ട് സർക്കിളുകളാൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നതു മൂലവും പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റുന്നത് ഇന്റഗ്രേഷൻ എളുപ്പമാക്കാൻ സഹായിക്കും അതിനാൽ പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റുന്നതിലൂടെ ലിമിറ്റ് നേടുന്നതിന് ഇപ്പോൾ വളരെ ലളിതമാണ് കാരണം എന്നിവ നൽകുന്നു എന്നിട്ട് ഈ ഇന്റഗ്രൽ എന്നാകുന്നു ചേഞ്ച് ഓഫ് വേരിയബിൾസ് എന്നത് ഡബിൾ ഇന്റഗ്രലുകളുടെ മൂല്യനിർണ്ണയത്തിന്റെ മറ്റൊരു പ്രധാന വശമാണെന്നും പോളാർ കോർഡിനേറ്റിലേക്ക് മാറ്റുന്നത് ഒരു പ്രത്യേക കേസാണെന്നും നമ്മൾ ഇപ്പോൾ കണ്ടു രണ്ട് വ്യത്യസ്ത വേരിയബിളുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിലൂടെ ഇന്റഗ്രലിന്റെ ഡൊമെയ്ൻ എളുപ്പമാക്കുന്നതും ഇന്റഗ്രേഷൻ എളുപ്പമാക്കുന്നതുമായ മറ്റ് കേസുകളും നമ്മൾ കണ്ടു ഈ പ്രഭാഷണങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന റഫറൻസുകളാണ് ഇവ